ഞങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ടുകളിൽക്ലോക്കിംഗ് സംബന്ധിച്ച ചർച്ച ആരംഭിക്കും ഇപ്പോൾ അടുത്ത ഏതാനും ആഴ്ചകളിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ക്ലോക്കിംഗും സമയവും ക്രോസ് ടോക്കുംമറ്റും സംബന്ധിച്ച വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെയും ഘടികാരം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ പ്രായോഗികമായി ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളും സിസ്റ്റങ്ങളും പ്രകൃതിയിൽ തുടർച്ചയായവയാണ് അതിനാൽ ചിപ്പിനകത്തോ സർക്യൂട്ടറിനകത്തോ ധാരാളം സംഭവങ്ങൾ നടക്കുന്നു എല്ലാം ഒരു ക്ലോക്ക് നിയന്ത്രിക്കുന്നു മുഴുവൻ സിസ്റ്റത്തിനും ഒരുതരം സമന്വയിപ്പിക്കുന്ന മാസ്റ്ററായി പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്ക് സിഗ്നൽ ക്ലോക്ക് വേഗതയേറിയതാണ് വേഗതയേറിയ പ്രവർത്തനം അതിനാൽ ഞങ്ങൾ ക്ലോക്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട് തീർച്ചയായും എന്താണ് ക്ലോക്ക് സിഗ്നൽ സർക്യൂട്ടിന്റെ പ്രവർത്തന വേഗതയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ എന്തൊക്കെയാണ് ഒരു ഘടികാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർവചിക്കുന്ന വ്യത്യസ്ത തരം പരാമീറ്ററുകൾ എന്തൊക്കെയാണ് തീർച്ചയായും ഇന്നത്തെക്കാലത്ത് വളരെ സാധാരണമായ ഉയർന്ന പെർഫോമൻസ് സർക്യൂട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഒരു സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് സർക്യൂട്ടിന്റെ കാലതാമസം ക്ലോക്ക് ആവൃത്തി കഴിയുന്നത്ര വർദ്ധിപ്പിക്കാൻ കഴിയും തീർച്ചയായും വൈദ്യുതി ഉപഭോഗത്തിന്റെ മറ്റ് ചില പരിധികൾക്കുള്ളിൽ ഞങ്ങൾ പിന്നീട് വീണ്ടും സംസാരിക്കും അതിനാൽ ക്ലോക്ക് ഡിസൈനിനെക്കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ ചർച്ച ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഡിജിറ്റൽ സിസ്റ്റത്തിലെ സമന്വയത്തിന് പിന്നിലെ അടിസ്ഥാന ആശയമാണ് ക്ലോക്കിംഗ് അതിനാൽ ഏതൊരു സീക്വൻഷൽ സർക്യൂട്ടും ഇന്നത്തെ എല്ലാ സീക്വൻഷൽ സർക്യൂട്ടുകളും വിപരീതമായി പ്രകൃതിയിൽ സമന്വയിപ്പിക്കുന്നു നിങ്ങൾക്ക് അസിൻക്രണസ് സിസ്റ്റംഉണ്ടായിരിക്കാം അവ രൂപകൽപ്പന ചെയ്യാനും നിയന്ത്രിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അവ മികച്ചതോ ഉയർന്ന വേഗതയോ വാഗ്ദാനം ചെയ്യുമെങ്കിലും ഇത് വളരെ ബുദ്ധിമുട്ടാണ് അത്തരം സർക്യൂട്ടുകളും സിസ്റ്റങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും അതിനാൽ സിൻക്രണസ് സർക്യൂട്ടുകളുടെകാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്ന മിക്കവാറും എല്ലാ സംവിധാനങ്ങളും പ്രകൃതിയിൽ സമന്വയിപ്പിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട് അതിനാൽ നമ്മൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്ലോക്കിംഗുമായി ബന്ധപ്പെട്ട ചില പാരാമീറ്ററുകൾ ഉണ്ട് സ്ക്യൂ ജിറ്റർ നിരവധി കാലതാമസ പരിമിതികളുണ്ട് അവയെക്കുറിച്ച് സംസാരിക്കാം അവ ചിലതരം പരമാവധി പരിമിതികളെയും മിനിമം പരിമിതികളെയും സെറ്റപ്പ് എന്ന് വിളിക്കുന്നു ഈ സ്കയുവിനേയും ജിറ്ററിനെയും പോലുള്ള പ്രതിഭാസങ്ങളെ ബാധിക്കുന്ന ചില ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ ഇതാണ് ഞാൻ സംസാരിച്ചത് ഇന്ന് ഉപയോഗിക്കുന്ന മിക്ക ചിപ്പുകളും പ്രകൃതിയിൽ സമന്വയിപ്പിക്കുന്നു അതിനർത്ഥം ഒരു റഫറൻസ് ക്ലോക്ക്ഉണ്ട് സാധാരണയായി പല സിസ്റ്റങ്ങളിലും ഒരൊറ്റ ക്ലോക്ക് ഉണ്ട് ഒരൊറ്റ ബാഹ്യ ഉറവിടത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒന്നിലധികം ക്ലോക്ക് ഘട്ടങ്ങളുണ്ടാകാം അതിനാൽ ചിപ്പിന്റെ എല്ലാ ആന്തരിക പ്രവർത്തനങ്ങളും സാധാരണയായി പുറത്തു നിന്ന് പ്രയോഗിക്കുന്ന ക്ലോക്കുമായി ബന്ധപ്പെട്ട് അവ സമന്വയിപ്പിക്കുന്നു അതിനാൽ സംഭരണ ഘടകങ്ങളെ സമന്വയിപ്പിക്കാൻ ക്ലോക്ക് സിഗ്നൽ ഉപയോഗിക്കുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നിങ്ങൾക്ക് ഉദാഹരണമായി ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്ഉണ്ട് അതിൽ ഒരു ഡി ഇൻപുട്ടുംക്യു ഔട്ട്പുട്ഉം ഉണ്ട് കൂടാതെ ഒരു ക്ലോക്ക് ഇൻപുട്ടുംഉണ്ടാകും ഇത് ക്ലോക്ക് ആണ് അതിനാൽ ഇവിടെ ഡിയിലേക്ക് ഞാൻ അപേക്ഷിക്കുന്നതെന്തും ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളിൽ ഒരു ക്ലോക്കുമായി സമന്വയിപ്പിക്കും അതിനാൽ ഞാൻ ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുമ്പോൾ അനുയോജ്യമായ ക്ലോക്ക് സിഗ്നൽ ഇതുപോലെയായിരിക്കും അത് നിശ്ചിത സമയത്തിനൊപ്പം മുകളിലേക്കും താഴേക്കും പോകുന്ന ആനുകാലിക സിഗ്നലായിരിക്കും അതിനാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ തരം അനുസരിച്ച് ഇവ ക്ലോക്ക് സിഗ്നൽ 0 മുതൽ 1 വരെ അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നൽ 1 മുതൽ 0 വരെ പോകുമ്പോഴെല്ലാം ക്ലോക്കിന്റെ ഉയരുന്ന അരികിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സജീവമാക്കാം അതിനാൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗർചെയ്യുമ്പോൾ ഞങ്ങൾ സാധാരണയായി ക്ലോക്കിൽ ഒരു ബബിൾ ഉപയോഗിക്കുന്നു സിഗ്നൽ ഇത് സൂചിപ്പിക്കുന്നതിന് ക്ലോക്ക് ഇൻപുട്ട് ഇവയെ സാധാരണയായി എഡ്ജ് ട്രിഗർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ വിപരീതമായി ഈ ക്ലോക്കിന്റെ അരികുകളാൽ ഈ സ്റ്റോറേജ് നിയന്ത്രിക്കപ്പെടാത്ത ഒരു ലാച്ച് നമുക്ക് ഉണ്ടായിരിക്കാം എന്നാൽ ലെവൽ അനുസരിച്ച് ക്ലോക്ക് ഉയർന്നിടത്തോളം കാലം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ലാച്ച് ഇൻപുട്ടിൽവരുന്ന ഇൻപുട്ടിൽ എന്തും തുറന്നിരിക്കും സംഭരിക്കും അവസാന മൂല്യം അതിനാൽ ക്ലോക്ക് ഇറങ്ങിയതിനുശേഷം അത് ഒടുവിൽ സംഭരിക്കപ്പെടുന്ന മൂല്യമായിരിക്കും അടുത്തതായി നമ്മൾ സംസാരിച്ചത് പൈപ്പ്ലൈനിംഗ്ആണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ച മിക്ക സിസ്റ്റങ്ങളും വളരെ പൈപ്പ് ലൈൻ ഉള്ളവയാണ് അവിടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളോ പൈപ്പ് ലൈൻ പ്രോസസ്സറുകളോഉണ്ട് അതിനാൽ ഉദാഹരണത്തിന് ഒരു സാധാരണ നിർദ്ദേശ പൈപ്പ്ലൈനിംഗിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എല്ലാ പ്രോസസ്സറുകളും അവർ ഒരു സെക്കൻഡിൽ നിർവ്വഹിച്ച നിർദ്ദേശങ്ങളുടെ എണ്ണം മെച്ചപ്പെടുത്തുന്നതിന് ആന്തരികമായി പൈപ്പ് ലൈനിംഗ് ഉപയോഗിക്കുന്നു ഇത് ത്രൂപുട്ട് മെച്ചപ്പെടുത്തുന്നു ആക്രമണാത്മക പൈപ്പ്ലൈനിംഗ്ഉയർന്ന ആവൃത്തി പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു ഞാൻ ഇത് വിശദീകരിക്കാൻ ശ്രമിക്കും എന്നാൽ ഒരു പൈപ്പ്ലൈൻ എങ്ങനെ കാണപ്പെടുന്നു ഒരു പൈപ്പ്ലൈൻ ഇതുപോലെയാണെന്ന് തോന്നുന്നു ഇത് രണ്ട് സ്റ്റേജ് പൈപ്പ്ലൈനിന്റെ ഒരു ഉദാഹരണമാണ് ഈ കറുത്ത ഷേഡുള്ള പ്രദേശങ്ങൾ രണ്ട് ഘട്ടങ്ങളാണ് അവയ്ക്കിടയിൽ ചില രജിസ്റ്ററുകൾ സംഭരണ ഘടകങ്ങളുണ്ട് അവ ഒരു ക്ലോക്ക് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നു ഇത് നാല് ഘട്ട പൈപ്പ്ലൈനാണ് അതിനാൽ പൈപ്പ്ലൈനിന് പിന്നിലെ അടിസ്ഥാന ആശയം എന്താണ് ലളിതമായ ഈ ഉദാഹരണത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം എനിക്ക് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടെന്ന് കരുതുക അതിനെ S എന്ന് വിളിക്കട്ടെ അതിനാൽ എനിക്ക് ഒരു ഇൻപുട്ട് പ്രയോഗിച്ച് എനിക്ക് ഒരു ഔട്ട്പുട്ട് ലഭിക്കും ഒരു കൂട്ടം ഡാറ്റപ്രോസസ്സ് ചെയ്യുന്നതിന് എടുത്ത സമയം T ആണെന്ന് കരുതുക അതിനാൽ n ഡാറ്റ ഇനങ്ങൾക്ക് അതിനാൽ മൊത്തം സമയം എന്തായിരിക്കും നമുക്ക് അതിനെ ടൈം എൻഎന്ന് വിളിക്കാം ഇത് T കൊണ്ട് n ഗുണിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒറ്റ ഘട്ടത്തിനുപകരം ഞാൻ ഈ കണക്കുകൂട്ടൽ ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുന്നു അതിനാൽ നമുക്ക് ഉദാഹരണമായി നാല് എടുക്കാം അതിനാൽ ഞാൻ അവരെ S1 S2 S3 S4 എന്ന് വിളിക്കുന്നു അതിനാൽ ഇൻപുട്ട് വരുന്നു എസ് 1 ന്റെ ഔട്ട്പുട് എസ് 2 ന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു എസ് 2 ന്റെ ഔട്ട്പുട്ട് എസ് 3 ന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു അതിനാൽ ഈ മുഴുവൻ കണക്കുകൂട്ടലുകളെയും പിന്തുടരുന്നു എന്നതാണ് ആശയം ഒന്ന് ഞാൻ നാല് ഭാഗങ്ങളായി വിഭജിക്കുന്നതുപോലെയാണ് അതിനാൽ ഞാൻ അവരെ S1 S2 S3 S4 എന്ന് വിളിച്ചു ഞാൻ ഹാർഡ്വെയർ നാല് തവണ വർദ്ധിപ്പിക്കുന്നത് പോലെയല്ല അതേ ഹാർഡ്വെയർ പക്ഷേ ഞാൻ അതിനെ നാല് ഭാഗങ്ങളായി വിഭജിക്കുന്നു അവ സമയത്തിന്റെ കാര്യത്തിൽ ഏകദേശം തുല്യ സങ്കീർണ്ണതയാണ് ഇപ്പോൾ ഡാറ്റാ ഇനത്തിന്റെ കാര്യത്തിൽ ഇൻപുട്ട് ഡാറ്റ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ വരുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് ഇതുപോലെ പ്രവർത്തിക്കുന്നു ഇതാണ് സമയ ഘട്ടങ്ങൾ ഒരു ഘട്ടം പൂർത്തിയാകാൻ എടുത്ത സമയം പറയട്ടെ നമുക്ക് അതിനെ ചെറിയ t എന്ന് വിളിക്കാം അതിനാൽ t 2t 3t തുടങ്ങിയവ എന്തു സംഭവിക്കും ആദ്യം നമുക്ക് ഈ ഘട്ടങ്ങൾ S1S2S3S41 എന്നിവ സൂചിപ്പിക്കാം അതിനാൽ ആശയം ഇങ്ങനെയായിരിക്കും ഈ S1 ഡാറ്റ സെറ്റ് 1ൽ പ്രവർത്തിക്കാൻ തുടങ്ങും അത് പൂർത്തിയാക്കിയ ശേഷം അത് S2 ലേക്ക് പോകും അത് പൂർത്തിയാക്കിയ ശേഷം S3 അത് പൂർത്തിയാക്കിയ ശേഷം S4 ലേക്ക് പോകും ഇപ്പോൾ ഈ S1 S1 ന്റെ ഔട്ട്പുട് S2 ന്റെ ഇൻപുട്ടിലേക്ക് പോകുമ്പോൾ പൈപ്പ് ലൈനിംഗിന്റെ ആശയം എസ് 1 ൽ രണ്ടാമത്തെ ഇൻപുട്ട് കണക്കുകൂട്ടൽ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതേ ഓവർ ലാപ് ഫാഷനിൽ അതുപോലെ ഇത് S3 ലേക്ക് പോകുമ്പോൾ എനിക്ക് ഇവിടെ 2 ആരംഭിക്കാനും 3 ഇവിടെ ആരംഭിക്കാനും ആഗ്രഹിക്കുന്നു അതിനാൽ ഈ രീതിയിൽ ഇത് ഒരു ഓവർലാപ്പ് രീതിയിൽ തുടരും ഈ രീതിയിൽ ഇത് തുടരും നാല് തവണ ഘട്ടങ്ങൾക്ക് ശേഷം ആദ്യ ഔട്ട്പുട് ജനറേറ്റുചെയ്യുന്നു അതിനുശേഷം ഓരോ ഘട്ടത്തിലും ഒരു ഔട്ട്പുട് ജനറേറ്റുചെയ്യും അതിനാൽ n ഡാറ്റ ഇനങ്ങൾക്കായി നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു കണക്കുകൂട്ടൽ നടത്താം മൊത്തം സമയം ഇവിടെ ഘട്ടങ്ങളുടെ എണ്ണമായിരിക്കും 4 മൈനസ് 1 പൈപ്പ്ലൈൻ പൂരിപ്പിക്കുന്നതിന് എടുത്ത സമയവും ഡാറ്റയുടെ എണ്ണവും കാരണം സമയം 3 എനിക്ക് ഓരോ ക്ലോക്ക് ഔട്ട്പുട്ടും ഓരോ ക്ലോക്ക് പൾസുംമുഴുവനായി T കൊണ്ട് ഗുണിക്കും അതിനാൽ ഇത് ഏകദേശം n പ്ലസ് 3 ആണ് ഇത് കാണുക ഇത് ഏകദേശം തുല്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഒരേ സമയം എനിക്ക് ഏകദേശം 4 വരെ വേഗത കൈവരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് സ്റ്റേജുകളുടെ എണ്ണത്തിന് ഏകദേശം 4 തുല്യമായ വേഗതയെ സൂചിപ്പിക്കുന്നു എന്നാൽ തീർച്ചയായും ഈ ഘട്ടങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് ആവശ്യമാണ് ഘട്ടങ്ങൾക്കിടയിൽ രജിസ്റ്റർ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാൻ ഇത് ഒരു ക്ലോക്ക് വഴി ഫീഡ് ചെയ്യും ഇത് ഒരു ക്ലോക്ക് സിഗ്നൽ ആയിരിക്കും ഇത് പൈപ്പ് ലൈനിംഗിന്പിന്നിലെ ഒരു അടിസ്ഥാന ആശയമാണ് ഇന്ന് നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ സിസ്റ്റങ്ങൾക്കും ഒരു ആന്തരിക പൈപ്പ്ലൈൻ ഘടനയുണ്ട് കാര്യക്ഷമത പരിഗണനകൾ കാരണം ത്രൂപുട്ട് കാരണം അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ത്രൂപുട്ട് വർദ്ധിക്കുന്നു അതിനാൽ ഇതാണ് അടിസ്ഥാന ആശയം കോമ്പിനേഷണൽ സർക്യൂട്ടുകളായ നിരവധി S1S2S3S4 ബ്ലോക്കുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്നും അവയ്ക്കിടയിൽ ചില രജിസ്റ്ററുകളോ സംഭരണ ഘടകങ്ങളോ ഉണ്ടെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഒരു സാധാരണ സർക്യൂട്ട് ഇങ്ങനെയാണ് അതിനാൽ ഞങ്ങൾ പിന്നീട് കാണാനിടയുള്ള ഉദാഹരണങ്ങളെ വിലമതിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും കാരണം അടിസ്ഥാനപരമായി നമുക്കുള്ളത് പിന്നീട് കാണും അതിനിടയിൽ ചില കോമ്പിനേഷൻ സർക്യൂട്ടുള്ള രണ്ട് സംഭരണ ഘടകങ്ങളുണ്ട് അതിനാൽ ഏറ്റവും താഴ്ന്ന തലത്തിൽ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഇടയ്ക്ക് ചെറിയ കോമ്പിനേഷൻ സർക്യൂട്ടും ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ആ ചെറിയ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ കഴിയുമെങ്കിൽ അടിസ്ഥാനപരമായി സമാനമായ ഘടനയുള്ള ഒരു പൈപ്പ്ലൈൻ വാസ്തുവിദ്യയും നിങ്ങൾക്ക് വിശകലനം ചെയ്യാം അതിനാൽ മറ്റൊരു പ്രശ്നത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഇത് ഒരു പ്രോസസറിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പ്രോസസറായ ഒരു സിപിയുവിനെക്കുറിച്ചാണ് സമാനമായ ചർച്ച മറ്റ് തരത്തിലുള്ള ഡിജിറ്റൽ സർക്യൂട്ടുകൾക്കും ബാധകമാകും പക്ഷേ ഞങ്ങൾ ഇവിടെ പ്രോസസറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഇവിടെ മൊത്തം എക്സിക്യൂഷൻ സമയം നിർദ്ദേശങ്ങളുടെ എണ്ണം നിർദ്ദേശങ്ങളുടെ എണ്ണം എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കാൻ ആവശ്യമായ ക്ലോക്ക് സൈക്കിളുകളുടെഎണ്ണം എന്നിവ ആയിരിക്കും ഇതിനെ ക്ലോക്ക് പിരീഡ് ക്ലോക്ക് സൈക്കിൾ സമയം എന്നിവയാൽ ഗുണിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സൈക്കിൾസ് എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് വർദ്ധിപ്പിച്ചാൽ ഒരു പ്രോഗ്രാമിന്റെ മൊത്തം നിർവ്വഹണ സമയം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ എനിക്ക് ഒരു പ്രോസസർ വേഗത്തിൽ നിർമ്മിക്കണമെങ്കിൽ അതിനർത്ഥം എക്സിക്യൂഷൻ സമയം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് ഇത് എങ്ങനെ ചെയ്യാനാകും എനിക്ക് മൂന്ന് വ്യത്യസ്ത രീതികളിൽ ഇത് ചെയ്യാൻ കഴിയും ഒന്നുകിൽ എനിക്ക് നിർദ്ദേശങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും ഇൻസ്ട്രക്ഷൻ സെറ്റ്ആർക്കിടെക്ചർ പരിഷ്ക്കരിച്ചുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് കരുതുക അവിടെ എനിക്ക് ഒരു ഗുണന നിർദ്ദേശങ്ങൾ ഇല്ല അതിനാൽ വർദ്ധിപ്പിക്കുന്നതിന് എനിക്ക് നിരവധി നിർദ്ദേശങ്ങൾ ഉപയോഗിക്കേണ്ടിവരും ഗുണനം ഉള്ള ഒരു പുതിയ നിർദ്ദേശ സെറ്റിലേക്ക് ഞാൻ നീങ്ങിയാൽ നിർദ്ദേശങ്ങളുടെ എണ്ണം കുറവായിരിക്കും ഐസി കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് നിർദ്ദേശം അനുസരിച്ച് സൈക്കിളുകൾ കുറയ്ക്കുക ഇവിടെ നമുക്ക് ഒരു മികച്ച പൈപ്പ്ലൈൻ ലഭിക്കും ആഴത്തിലുള്ള പൈപ്പ്ലൈൻ പൈപ്പ് ലൈനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക പ്രോസസ്സിംഗ് കൂടുതൽ ഓവർലാപ്പുചെയ്യുന്നത് കൂടുതൽ വേഗത വർദ്ധിപ്പിക്കും ഓരോ നിർദ്ദേശത്തിനും ആവശ്യമായ സൈക്കിളിന്റെ എണ്ണം കുറയും തീർച്ചയായും നിങ്ങൾ സമയം ക്ലോക്ക് പിരീഡ് അല്ലെങ്കിൽ സിസിടി കുറയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ലോജിക് ഡിസൈൻചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് ഞങ്ങളുടെ ചർച്ചാ വിഷയമാണ് തീർച്ചയായും ഫാബ്രിക്കേഷൻ സാങ്കേതികവിദ്യയിൽ മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ എന്നതിനർത്ഥം വേഗതയേറിയ സർക്യൂട്ട് എന്നാണ് സാങ്കേതികവിദ്യ ചിലപ്പോൾ ഒരു ഡിസൈനറുടെ നിയന്ത്രണത്തിലല്ല ഡിസൈനർക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പുകളുള്ള ഗേറ്റുകൾ ഉപയോഗിച്ച് ലോജിക് ഡിസൈൻ ഉപയോഗിച്ച് പ്ലേ ചെയ്യാനും പിശകുകളില്ലാതെ സർക്യൂട്ട് വേഗത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനും കഴിയും അതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഞങ്ങളുടെ പ്രാഥമിക ശ്രദ്ധ ക്ലോക്കിംഗ് പ്രശ്നങ്ങളിൽ ആയിരിക്കും പ്രത്യേകിച്ചും സിസിടിയുടെ മൂന്നാമത്തെ കുറവ് അതിനാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാനാകും ശരി എഡ്ജ് ട്രിഗർചെയ്ത ഫ്ലിപ്പ് ഫ്ലോപ്പിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു നിങ്ങൾ ഇവിടെ ചില പ്രസ്താവനകൾ നടത്തുന്നു തീർച്ചയായും ഇത് പിന്നീട് കൂടുതൽ വിശദമായി വിശദീകരിക്കും ഒന്നാമത്തേത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സർക്യൂട്ടുകളും എഡ്ജ് ട്രിഗഡ് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് ക്ലോക്ക് താഴ്ന്നതിൽ നിന്ന് ഉയർന്ന പോസിറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്യുമ്പോഴോ ഉയർന്നതിൽ നിന്ന് കുറഞ്ഞ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്യുമ്പോഴോ ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രവർത്തനക്ഷമമാകും അതിനാൽ ഒരു സമയത്ത് ഉള്ള ഡാറ്റ ടി പ്ലസ് ടിക്ക് ശേഷം അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എത്തണമെന്ന് പറയട്ടെ ടി എന്നത് ക്ലോക്ക് പിരീഡ്ആണ് അനന്തരഫല സജ്ജീകരണ സമയംഒരിക്കൽ നമുക്ക് പിന്നീട് കാണാം ഇപ്പോൾ തൽക്കാലം ഇത് അവഗണിക്കാം അതിനാൽ ഞങ്ങൾ പറയുന്നത് ടി പ്ലസ് ടിക്ക്മുമ്പായി ഡാറ്റ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു സജ്ജീകരണ സമയത്തെത്തണം ശരി ഇവിടെ നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് ആ പൈപ്പ്ലൈൻ തരത്തിലുള്ള വാസ്തുവിദ്യയെക്കുറിച്ചാണ് അതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാസ്തുവിദ്യയിൽ ഉറച്ചുനിൽക്കുന്നു അവിടെ എനിക്ക് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ട് എനിക്ക് ഒരു രജിസ്റ്റർ ഉണ്ട് നമുക്ക് Ri എന്ന് പറയാം എനിക്ക് മറ്റൊരു രജിസ്റ്റർ ഉണ്ട് നമുക്ക് Ri1 നമുക്ക് പറയാം ഇതിന്റെ ഔട്ട്പുട് ഇതിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു എനിക്ക് ക്ലോക്ക് സിഗ്നൽ ഉണ്ട് അത് ക്ലോക്ക് രജിസ്റ്ററിനും ഈ രജിസ്റ്ററിനും ഉപയോഗിക്കുന്നു T എന്നത് ക്ലോക്കിന്റെ സമയ കാലയളവാണ് ഇത് T അതിനാൽ ഞങ്ങൾ പറയുന്നത് അതാണ് ഇവിടെ താമസിക്കുന്ന ഏത് ഡാറ്റയും ഈ സമയം ചെറുതാണെന്ന് നമുക്ക് പറയാം അതിനാൽ അത് തയ്യാറായിരിക്കണം ഈ രജിസ്റ്ററുകൾ എല്ലാം പോസിറ്റീവ് എഡ്ജ് ട്രിഗഡ്ചെയ്യുന്നുവെന്ന് കരുതുക അതിനാൽ അടുത്ത ഘട്ടം വരുമ്പോൾ ഈ ഡാറ്റ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൽ തയ്യാറായിരിക്കണം അങ്ങനെ ശരിയായ ഔട്ട്പുട് സംഭരിക്കപ്പെടും അതിനാൽ ഈ മൂലധന സമയം T തീർച്ചയായും സജ്ജീകരണ സമയത്ത് എന്തെങ്കിലും ഉണ്ട് ഞാൻ പിന്നീട് സംസാരിക്കും ഇത് സംഭരണ ഘടകങ്ങളുടെ സവിശേഷതകളാണ് അതിനാൽ ഞങ്ങൾ ചിലത് നൽകണം സെറ്റപ്പ് സമയം എന്ന് വിളിക്കുന്ന ഈ കാര്യത്തെ പരിപാലിക്കുന്നതിനുള്ള ക്ലോക്ക് കാലഘട്ടവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നിങ്ങൾക്ക് പറയാം ഇത് ഞങ്ങൾ പിന്നീട് കാണും അൽപ്പസമയത്തിന് ശേഷം അതിനാൽ അടിസ്ഥാനപരമായി ക്ലോക്കിംഗ് ബന്ധങ്ങൾ ഇങ്ങനെയാണ് ഓരോ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും കോമ്പിനേഷൻ ബ്ലോക്കിന്റെഓരോ ഔട്ട്പുട് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കാലതാമസം വരുത്തുന്നു അതിനർത്ഥം ഒരു പൈപ്പ്ലൈൻ സർക്യൂട്ടിനായി ഒരു സ്റ്റേജിന്റെ ഔട്ട്പുട് രജിസ്റ്ററിലേക്കുള്ള ഇൻപുട്ട് രജിസ്റ്റർ T യേക്കാൾ കുറവായിരിക്കണം സജ്ജീകരണം അവഗണിക്കുക നിങ്ങൾക്ക് സജ്ജീകരണം ഉണ്ടെങ്കിൽ T ചെയ്യും കുറച്ച് കുറയുക അതിനാൽ T അല്പം കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് പിന്നീട് നമുക്ക് കാണാം ക്ലോക്കിന്റെ മറ്റൊരു പ്രധാന സ്വത്ത് ഇതും ഞങ്ങൾ പിന്നീട് അഭിസംബോധന ചെയ്യും ധാരാളം ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടെങ്കിൽ സർക്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യും അതിനാൽ നിങ്ങൾക്ക് അനുയോജ്യമായത് സിഗ്നൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലും ഒരേ സമയം എത്തണം എന്നതാണ് അതിനാൽ ഇത് ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്യത പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാം അതിനാൽ ക്ലോക്ക് സർക്യൂട്രിക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പാരാമീറ്റർ കൂടിയാണിത് എനിക്ക് ക്ലോക്ക് സിഗ്നൽ നൽകണമെങ്കിൽ അവയെല്ലാം ഒരേ സമയം അവിടെയെത്തണം ഇത് ഞങ്ങൾ പിന്നീട് ചർച്ചചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ അല്ല അതിനാൽ ഞങ്ങൾ പറയുന്നത് ഒരു ക്ലോക്ക് സിഗ്നൽ വരുന്നു t സമയം മുതൽ ആരംഭിക്കുന്നു ടി പ്ലസ് ക്യാപിറ്റൽ ടി സമയ കാലയളവ് ടി പ്ലസ് 2 ടി അതിനാൽ നിങ്ങൾക്ക് ഒരു സ്റ്റേജ് ഉണ്ട് അടിസ്ഥാനപരമായി ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആയ ഒരു ഘട്ടം നമുക്ക് പരിഗണിക്കാം അതിനുമുമ്പ് ഒരു രജിസ്റ്റർ അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക ഈ ക്ലോക്ക് വരുന്നു ഈ സമയം ടി ആവശ്യത്തിന് വലുതായിരിക്കണം അതിനാൽ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ കാലതാമസത്തിന്റെ ഏറ്റവും മോശമായ സാഹചര്യം ആ കണക്കുകൂട്ടൽ പൂർത്തിയാക്കണം അതിനാൽ അടുത്ത എഡ്ജ് ഇവിടെ എത്തുമ്പോഴെല്ലാം ശരിയായ ഔട്ട്പുട് ഇവിടെ സംഭരിക്കപ്പെടും അതിനാൽ ഇത് ഉറപ്പുവരുത്തിയാൽ മാത്രമേ പൈപ്പ് ലൈനിംഗ് ശരിയായി പ്രവർത്തിക്കൂ സ്റ്റേജ് 1 ന്റെ ഔട്ട്പുട്ട് സ്റ്റേജ് 2 ലേക്ക് പോകണം സ്റ്റേജ് 2 സ്റ്റേജ് 3 ലേക്ക് പോകണം കാരണം അടുത്ത ഡാറ്റയും സമാന്തരമായി വരുന്നു അതിനാൽ ഓവർലാപ്പ് എക്സിക്യൂഷൻഉണ്ടാകും കാരണം ഡാറ്റ 1 ഘട്ടം 1 മുതൽ ഘട്ടം 2 വരെയും ഡാറ്റ 2 ഘട്ടം 2 ലും വരും അതിനാൽ ഡാറ്റയുടെ സമന്വയമോ ലോക്ക് സ്റ്റെപ്പ്ചലനമോ ഉണ്ടായിരിക്കണം ക്ലോക്കിംഗും കാലതാമസവും തികച്ചും സമന്വയിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും ഒരു സ്റ്റേജ് 2 ഫിനിഷ് ഇറ്റ് കണക്കുകൂട്ടലിന് മതിയായ സമയം നൽകിയില്ലെങ്കിൽ തെറ്റായ ഔട്ട്പുട് ഔട്ട്പുട്ട് രജിസ്റ്ററിൽ സംഭരിക്കപ്പെടും നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ നമുക്ക് ആദ്യം സ്ക്യൂ ആൻഡ് ജിറ്റർ നോക്കാം ക്ലോക്ക് വിതരണവുമായി ബന്ധപ്പെട്ട രണ്ട് പാരാമീറ്ററുകളാണ് ഇവ ക്ലോക്ക് വിതരണത്തിന്റെ അർത്ഥമെന്താണ് ക്ലോക്ക് വിതരണം എന്നതിന്റെ അർത്ഥം എനിക്ക് ഒരു ചിപ്പ് ഉണ്ടെന്ന് പറയാം ഞാൻ സാധാരണയായി പറഞ്ഞതുപോലെ ഔട്ട്പുട് ൽ നിന്ന് ഞങ്ങൾ ക്ലോക്കിന്റെ ഒരൊറ്റ ഉറവിടം പ്രയോഗിക്കുന്നു അതിനകത്ത് ചില ക്ലോക്ക് സിഗ്നലുകൾ നിങ്ങളുടെ ചിപ്പിനുള്ളിലെ നിരവധി സ്ഥലങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന ചില സർക്യൂട്ടുകൾ ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് പോകാൻ ക്ലോക്ക് സിഗ്നൽ ആവശ്യമാണ് അതിനാൽ ഈ ക്ലോക്ക് സിഗ്നലുകൾ ഇവിടെ പോകേണ്ടതുണ്ട് ഇതിന് ഇവിടെ പോകേണ്ടതുണ്ട് ഇവിടെ പോകേണ്ടതുണ്ട് ഈ പോയിന്റുകളിലേക്ക് അതിനാൽ ഈ ക്ലോക്ക് നെറ്റ്വർക്ക് പിന്തുടരേണ്ടതോ ഉറപ്പാക്കേണ്ടതോ ആയ ഒരു സ്വത്താണ് ഇത് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ ക്ലോക്ക് സിഗ്നൽ എല്ലാ എൽ പോയിന്റുകളിലും ഏകദേശം ഒരേ സമയം എത്തണം കാരണം അത് ഉറപ്പാക്കിയില്ലെങ്കിൽ കണക്കുകൂട്ടലിൽ ചില പിശകുകൾ ഉണ്ടാകാം ഈ വിതരണ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ടെർമിനോളജികളും സ്കൌവും ജിറ്ററും അവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അതിനാൽ ക്ലോക്ക് പൊതുവായ റഫറൻസ് സിഗ്നൽ നൽകുന്നുവെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് ചിപ്പിലുടനീളം വിതരണം ചെയ്യപ്പെടാം കാരണം ഇത് ചിപ്പിലുടനീളം എല്ലാവർക്കുമായി വിതരണം ചെയ്യപ്പെടുന്നു ക്ലോക്ക് നെറ്റിന്റെമൊത്തം നീളം വളരെ വലുതായിരിക്കാം ഇത് നിരവധി ഒരേ സിഗ്നലിന്റെ ശാരീരിക പ്രകടനങ്ങൾ ഇതുമൂലം വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഏതുതരം പ്രശ്നങ്ങൾ ആദ്യത്തേത് ചരിവാണ് ക്ലോക്ക് നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഇല നോഡുകൾക്കിടയിൽ പരമാവധി കാലതാമസം വ്യത്യസ്തമാണെന്ന് സ്ക്യൂ പറയുന്നു എന്താണ് ഇതിന്റെ അര്ഥം ഇതാണ് ക്ലോക്ക് നെറ്റ്വർക്ക് ക്ലോക്ക് ഇവിടെ വരുന്നു അത് എല്ലായിടത്തും എത്തണം ഇത് പോയിന്റ് x ആണെന്ന് നമുക്ക് പറയാം ഇത് y പോയിന്റ് ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ഒരു പോയിന്റിൽ ക്ലോക്ക് സിഗ്നൽ ഇതായിരിക്കാം എന്നതാണ് സംഭവിക്കുന്നത് അതിനാൽ വൈയിൽ ക്ലോക്ക് എത്തുമ്പോൾ വ്യത്യസ്ത പാതകളിലെ കാലതാമസം കാരണം ചില സമയങ്ങളിൽ ഘടികാരം വൈകിയെന്ന് പറയുന്നത് പോലെ കാലതാമസം ഉണ്ടാകാം ഇതിനെയാണ് സ്ക്യൂ എന്ന് വിളിക്കുന്നത് കാലതാമസത്തിലെ വ്യത്യാസം ഞാൻ ഒരു ക്ലോക്കിന് ഭക്ഷണം നൽകുമ്പോഴെല്ലാം വ്യത്യസ്ത സമയങ്ങളിൽ ക്ലോക്ക് നെറ്റ്വർക്കിന്റെ ഇലകളുടെ വ്യത്യസ്ത അവസാന പോയിന്റുകളിൽ എത്തുന്നു ഇതിനെയാണ് സ്ക്യൂ എന്ന് വിളിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് നടുക്കമുണ്ടാകാം ഇവിടെ നമുക്ക് പറയാം x y എന്നിവയല്ല പ്രത്യേക പോയിന്റ് x അതിനാൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ളതാണ് എനിക്ക് ക്ലോക്ക് വരുന്ന ഒരു പോയിന്റ് x ഉണ്ടെന്ന് പറയട്ടെ ടി യുടെ കാലതാമസത്തിന് ശേഷം ആദ്യ ക്ലോക്ക് വരുന്നു രണ്ടാമത്തെ ക്ലോക്ക് വരുന്നു 0 9T യുടെ കാലതാമസം 1 1T കാലതാമസം കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ ക്ലോക്ക് സിഗ്നൽ അതിനാൽ ഒരേ ലീഫ് നോഡിനുള്ളസമയപരിധി തുടർച്ചയായ ക്ലോക്ക് പൾസുകൾ വരുന്നു അവയെല്ലാം ടി ടി ടി ടി എന്നിവയുടെ വിടവുകളുമായി തികച്ചും അനുയോജ്യമായിരിക്കണം പക്ഷേ ക്ലോക്ക് പൾസുകളിലുടനീളം ക്ലോക്കുകളിലുടനീളം കാലതാമസത്തിൽ വ്യത്യാസമുണ്ട് നടുക്കം എന്ന് വിളിക്കുന്നു ഒരൊറ്റ ലീഫ് നോഡിനുള്ള ക്ലോക്ക് സൈക്കിൾ സമയത്തിലെ ഒരു വ്യതിയാനമാണ് ജിറ്റർ കൂടാതെ ഒന്നിലധികം ഇല നോഡുകളിലുടനീളം ചരിവ് കാലതാമസത്തിൽ വ്യത്യാസമുണ്ടാകാം ക്ലോക്കുകൾ വിവിധ സമയങ്ങളിൽ ദൃശ്യമാകും ഇവ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് അവ ശരിയായി കൈകാര്യം ചെയ്യുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ സർക്യൂട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചേക്കില്ല അതിനാൽ നമുക്ക് നോക്കാം ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സ്കൂ ഉം ജിറ്ററും ഇതാണ് അതിനാൽ ഇത് ഒരു ക്ലോക്ക് സിഗ്നലാണെന്ന് നിങ്ങൾ കാണുന്നു ഇവിടെ അനുയോജ്യമായ ലംബമായി ഉയരുന്നതിനുപകരം ലംബമായി വീഴുന്നത് മന്ദഗതിയിലുള്ള ഉയർച്ചയും മന്ദഗതിയിലുള്ള വീഴ്ചയും കാണിക്കുന്നു ഇത് ക്ലോക്ക് സിഗ്നലുകളുടെ സാധാരണ ആകൃതികളാണ് കാരണം പരിമിതമായ ഉയർച്ച സമയവും പരിമിതമായ വീഴ്ച സമയവും ഉണ്ടാകും കാരണം പ്രതിരോധശേഷിയും കപ്പാസിറ്റീവും ബാധിക്കുന്നു ഞാൻ പറയുന്ന യഥാർത്ഥ ഘടികാരം സമയപരിധി ഇപ്പോഴും T ആണ് എന്നാൽ അരികുകൾ വൈകുന്നു അതിനാൽ അനുയോജ്യമായ ക്ലോക്ക് ഇവിടെ വരേണ്ടതായിരുന്നു എന്നാൽ ചില അധിക കാലതാമസങ്ങൾ കാരണം ചില കാലതാമസത്തിന് ശേഷം ക്ലോക്ക് എത്തുന്നു ഇതിനെ വിളിക്കുന്നു എന്നാൽ ഈ വക്രത കാലതാമസം തുടർച്ചയായ എല്ലാ പൾസ്സ് നും ഒരുപോലെയാണ് എന്നാൽ വളരെ വൈകിയതിന് ശേഷമാണ് ആദ്യത്തെ എഡ്ജ് വരുന്നതെന്ന് ജിറ്റർ പറയുന്നു രണ്ടാമത്തേത് ഈ പ്ലസ് ഇതിലും കൂടുതൽ കാലതാമസത്തിന് ശേഷം വരുന്നു ഇതിനെ ജിറ്റർ എന്ന് വിളിക്കുന്നു കാരണം ക്ലോക്ക് എഡ്ജുകൾ വരുന്നത് ടി യുടെ കാലതാമസത്തോടെയല്ല അവിടെ ടി പ്ലസും ജിറ്ററും ക്രമരഹിതമായി വ്യത്യാസപ്പെടാം ജിറ്റർ അർത്ഥമാക്കുന്നത് ഇതാണ് ഇനി നമുക്ക് സജ്ജീകരണം എന്ന് വിളിക്കുന്ന ഒന്ന് നോക്കാം സംഭരണ ഘടകങ്ങളെസംബന്ധിച്ച സമയങ്ങൾ പിടിക്കുക അതിനാൽ നമ്മൾ നോക്കുന്നത് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് നമുക്ക് പറയാം എന്നതാണ് വീണ്ടും ഞാൻ സംസാരിക്കുന്നു ഒരു പൈപ്പ്ലൈനിന്റെ ഉദാഹരണം എടുത്ത് രജിസ്റ്റർ ഘട്ടങ്ങളുണ്ട് ഒരു കോമ്പിനേഷൻ സർക്യൂട്ടുകളുണ്ട് അതിനാൽ ഈ രണ്ട് ക്ലോക്ക് സിഗ്നലിന് പ്രത്യേകം പേര് നൽകാം ഞാൻ ഇതിനെ ഡ്രൈവിംഗ് ക്ലോക്ക് എന്ന് വിളിക്കുന്നു ഇത് സ്വീകരിക്കുന്ന ക്ലോക്ക് പോലെയാണ് ഇത് ടി ലോജിക്ആണ് ഈ ലോജിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഘട്ടം വഴിയുള്ള കാലതാമസം നമുക്ക് നോക്കാം അതിനാൽ ഡ്രൈവിംഗ് ക്ലോക്കിന്റെ ഉയരുന്ന അരികിൽ നിന്ന് ലോജിക് മൂല്യനിർണ്ണയം ആരംഭിക്കുന്നു കാരണം ഡ്രൈവിംഗ് ക്ലോക്കിന്റെ ഉയർച്ച ലഭിക്കുമ്പോൾ മുമ്പത്തെ ഘട്ടത്തിൽ നിന്ന് വരുന്ന ഏത് ഇൻപുട്ടും ഈ രജിസ്റ്ററിൽ സംഭരിക്കപ്പെടുകയും ഈ ലോജിക് ഘട്ടം ആരംഭിക്കുകയും ചെയ്യും കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ കണക്കുകൂട്ടൽ അതിനാൽ യുക്തി വിലയിരുത്തൽ ആ സമയത്ത് ആരംഭിക്കുന്നു അതിനാൽ ശരിയായ പ്രവർത്തനത്തിന് ലോജിക് സിഗ്നൽ അല്ലെങ്കിൽ ലോജിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിലെത്തുന്നതിനുമുമ്പ് അതിന്റെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കുകയും ക്ലോക്കുകളുടെ സ്വീകരണത്തിന്റെ അടുത്ത ഘട്ടം വരികയും വേണം ഞാൻ പറയുന്നത് ടി ലോജിക്കിന്റെ കാലതാമസമാണ് ഈ ലോജിക് സർക്യൂട്ട് അതിന്റെ കണക്കുകൂട്ടൽ പൂർത്തിയാകുമ്പോൾ അത് ലഭിക്കണം ഈ ഘട്ടത്തിൽ എത്തണം അപ്പോൾ ഈ ഘടികാരം മാത്രമേ വരൂ അല്ലാത്തപക്ഷം ചില തെറ്റായ മൂല്യം സംഭരിക്കപ്പെട്ടേക്കാം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സെറ്റപ്പ് സമയം എന്ന് അവർ പറയുന്നു അതിനാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ചില കാലതാമസങ്ങളുണ്ട് ഒരു ക്ലോക്ക് സിഗ്നൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഇൻപുട്ട് ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉടൻ സംഭരിക്കില്ല അതിനുശേഷം ഡാറ്റ സംഭരിക്കപ്പെടും കൂടാതെ ഇൻപുട്ട് ഡാറ്റ കുറഞ്ഞ സമയത്തേക്ക് സുസ്ഥിരമായി സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ശരിയായി സംഭരിക്കപ്പെടും അല്ലാത്തപക്ഷം തെറ്റായ ഡാറ്റ സംഭരിച്ചേക്കാം ഇതാണ് സെറ്റപ്പ് സമയം എന്ന് വിളിക്കപ്പെടുന്നത് അതിനാൽ സജ്ജീകരണ സമയം നിർവചിച്ചിരിക്കുന്നത് എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് സിഗ്നൽ സ്ഥിരത കൈവരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമയമാണിത് നിങ്ങൾ സജ്ജീകരണ സമയം കണക്കാക്കുമ്പോൾ ഡ്രൈവ് ക്ലോക്കിനുമിടയിലുള്ള ഈ സ്കൂഉം ജിറ്റർ ഉം നിങ്ങൾ ശ്രദ്ധിക്കുകയും ക്ലോക്ക് സ്വീകരിക്കുകയും വേണം അതിനാൽ ഇത് ഞങ്ങൾ സാവധാനം കാണും അതിനാൽ ഈ സമയ ഡയഗ്രം വീണ്ടും നോക്കുക ഇതാണ് ഡ്രൈവ് ക്ലോക്ക് ഇതാണ് സ്വീകരിക്കുന്ന ക്ലോക്ക് അതിനാൽ ഞങ്ങൾ പറയുന്നത് അതാണ് ഇതാണ് യുക്തിയുടെ കാലതാമസം ഈ ഘട്ടത്തിലെ ഏറ്റവും മോശം അവസ്ഥ കാലതാമസം അതിനാൽ ഈ അരികിൽ നിന്ന് ഡ്രൈവ് ക്ലോക്ക് 0 മുതൽ 1 വരെ പോകുമ്പോഴെല്ലാം ഈ ഘട്ടം കണക്കാക്കാൻ ആരംഭിക്കുന്നു ഈ ലോജിക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ ഡാറ്റ ലഭ്യമാകുന്ന മൊത്തം സമയമാണ് ടി ലോജിക്ക് ഇത്രയധികം സമയം എടുക്കുന്നതെന്ന് കരുതുക അതിനുശേഷം ഈ ടി സജ്ജീകരണ സമയത്തേക്ക് ഞാൻ ഈ മൂല്യം സ്ഥിരമായി നിലനിർത്തണം അല്ലാത്തപക്ഷം ഇത് ശരിയായി ഇവിടെ സംഭരിക്കപ്പെടുന്നില്ല അതിനാൽ ലോജിക് സർക്യൂട്ട് ഡാറ്റ കണക്കുകൂട്ടാൻ നിങ്ങൾ പരമാവധി സമയം കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യകത ഇതാണ് നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ സജ്ജീകരണ സമയമായ ഏറ്റവും കുറഞ്ഞ സമയം ടി സെറ്റപ്പിനായി കാത്തിരിക്കണം തുടർന്ന് മാത്രം സ്വീകരിക്കുന്ന ക്ലോക്ക് ഞങ്ങൾ പ്രയോഗിക്കണം സ്വീകരിക്കുന്ന ക്ലോക്ക് എഡ്ജ്ഇതിന് മുമ്പ് വരരുത് ഇതിന് മുമ്പ് വന്നാൽ പിശക് സംഭവിക്കാം ഞങ്ങൾ സ്ക്യൂ ഉം ജിറ്റർ ഉം കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ സമയം കൂടുതൽ നീട്ടാൻ കഴിയും കാരണം സ്കയുയും ജിറ്റർ ഉം ഉണ്ടെങ്കിൽ ക്ലോക്കിൽ ചില കാലതാമസങ്ങൾ ഉണ്ടാകാം അതിനാൽ ക്ലോക്ക് സ്വീകരിക്കുന്നത് വൈകിയേക്കാം അതിനാൽ നിങ്ങളുടെ സമയ ആവശ്യകത എന്തായിരിക്കും നിങ്ങളുടെ മൊത്തം സമയപരിധി ലോജിക് സർക്യൂട്ടിന്റെ ഏറ്റവും മോശം കാലതാമസത്തിന് തുല്യമായിരിക്കണം അതിനർത്ഥം പൈപ്പ്ലൈനിന്റെ ഘട്ടവും ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്വീകരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഈ സെറ്റ് സമയവും പരമാവധി ക്ലോക്ക് സ്കീയും പരമാവധി ഞെട്ടലും അതിനാൽ അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവയെല്ലാം കൂട്ടിച്ചേർക്കുക നിങ്ങളുടെ സമയപരിധി അതിനേക്കാൾ കൂടുതലായിരിക്കണം കാരണം ഏത് വ്യതിയാനങ്ങൾ ഉണ്ടായാലും മിനിമം സെറ്റപ്പ് ആവശ്യകതയുണ്ടെങ്കിലും നിങ്ങൾ അത്രയും സമയം നൽകണം അല്ലാത്തപക്ഷം ശരിയായ ഡാറ്റ സംഭരിക്കപ്പെടില്ല സ്വീകരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അല്ലേ അതിനാൽ സമാനമായ രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരു തടസ്സം ഉണ്ടാകാം അത് ഒരു മിനിറ്റ് വൈകിയുള്ള നിയന്ത്രണം എന്ന് വിളിക്കുന്നു സജ്ജീകരണ സമയം എന്തായിരുന്നുവെന്ന് നിങ്ങൾ കാണുന്നു ഇൻപുട്ടിൽ നിങ്ങൾക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡാറ്റവരുന്നുണ്ടെന്ന് സജ്ജീകരണ സമയം പറയുന്നു ക്ലോക്ക് വരുന്നതിനുമുമ്പ് നിങ്ങളുടെ ഇൻപുട്ട് ഡാറ്റ കുറഞ്ഞത് സമയത്തേക്ക് സൂക്ഷിച്ചിരിക്കണം ഏറ്റവും കുറഞ്ഞ സമയം സജ്ജീകരണ സമയമാണെന്ന് ഇപ്പോൾ ഹോൾഡ് ടൈംസ് മറ്റൊരാൾ പറയുന്നു ക്ലോക്ക് എഡ്ജ് വന്നതിനുശേഷം നിങ്ങൾ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം ഈ സ്റ്റോറേജ് ഘടകത്തിന് കുറഞ്ഞ സമയത്തേക്ക് അവയുടെ ഔട്ട്പുട് സിഗ്നൽ കൈവശം വയ്ക്കേണ്ടിവരുമെന്ന് പറയുന്നത് കാണുക അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ സമാനമായ ലോജിക് ബ്ലോക്ക് സമാനമായ ഡ്രൈവിംഗ് ക്ലോക്ക് ഡ്രൈവിംഗ് ക്ലോക്ക് ക്ലോക്ക് സ്വീകരിക്കുന്നു എന്നിവ ഞങ്ങൾ ഇത് വിശദീകരിക്കും അതിനാൽ ഈ ഹോൾഡ് ടൈംസ് പറയുന്നത് ഇതാണ് നിർവചനം അതിനാൽ സിഗ്നൽ വളരെ വേഗത്തിൽ ലോജിക് സർക്യൂട്ടിലൂടെ കടന്നുപോകരുത് അതേ സൈക്കിളിന്റെ സ്വീകരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഉയർച്ചയിൽ നിന്ന് പിടിക്കപ്പെടരുത് എന്നതാണ് അനുയോജ്യം ഇതൊരു കാര്യമാണ് ഈ ഉദാഹരണം വീണ്ടും വിശദീകരിക്കാം ഈ ഉദാഹരണം എടുക്കുക അതിനാൽ എനിക്ക് ഈ ഡ്രൈവിംഗ് ക്ലോക്ക് ഉണ്ട് ഡ്രൈവിംഗ് ക്ലോക്ക് വരുന്നു അത് ടി സമയമാണ് അതിനാൽ സമയ ആവശ്യകതകൾ എന്തൊക്കെയാണ് ഡ്രൈവിംഗ് ക്ലോക്കുകൾ നിങ്ങൾ കൈവശം വയ്ക്കേണ്ട സമയം വന്നതിനുശേഷം ക്ലോക്ക് വരുന്നതിനുമുമ്പ് ഇൻപുട്ട് ഡാറ്റ സ്ഥിരമായി സൂക്ഷിക്കേണ്ട സമയമാണിത് ഞാൻ ഇതുപോലെ സംസാരിക്കട്ടെ എനിക്ക് ഇതുപോലുള്ള ക്ലോക്ക് ഉള്ളതിനാൽ ഇത് ക്ലോക്ക് എഡ്ജ് ഇതാണ് ക്ലോക്ക് എഡ്ജ് എന്ന് ഇവിടെ വിശദീകരിക്കുന്നു അതിനാൽ ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഡാറ്റ വരുമ്പോഴെല്ലാം ആണ് അതിനാൽ ഇത് സമയമാണ് ക്ലോക്ക് എഡ്ജ് വരുന്നു ഞാൻ എന്താണ് പറയുന്നത് ഇത് എന്റെ സെറ്റപ്പ് സമയത്തിന് മുമ്പ് എന്റെ ഡാറ്റ സ്ഥിരത നിലനിർത്തണം എഡ്ജ് വന്നതിനുശേഷം എന്റെ ഹോൾഡ് സമയമായ ഒരു മിനിമം സമയത്തിനായി ഞാൻ വീണ്ടും കാത്തിരിക്കണം ഈ രണ്ട് തവണയും ഞാൻ നൽകണം അപ്പോൾ എന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രവർത്തനം മാത്രമേ വിശ്വസ്തതയോടെ ശരിയാണെന്ന് ഉറപ്പുനൽകൂ അതിനാൽ എഡ്ജിന് മുമ്പായി കുറച്ച് മിനുട്ട് സമയം എഡ്ജിന് ശേഷമുള്ള കുറച്ച് സമയം ഇവ സജ്ജീകരിക്കുകയും പിടിക്കുകയും ചെയ്യുന്നു ഈ ഡയഗ്രാമിൽ ഞങ്ങൾ ഹോൾഡ് സമയം ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു എഡ്ജ് വന്നതിനുശേഷം കുറഞ്ഞത് ടി ഹോൾഡ് സമയം നൽകണം അതിനുശേഷം മാത്രമേ ലോജിക് കണക്കുകൂട്ടലുകൾ നടത്താവൂ അതിനാൽ ഞാൻ പറയുന്നത് ഡ്രൈവർ ക്ലോക്ക് ഇത്രയും നേരത്തെ വരുമ്പോഴെല്ലാം ഞങ്ങൾ അനുമാനിക്കുന്നു ഡ്രൈവർ ക്ലോക്കുകൾ വരുമ്പോഴെല്ലാം ലോജിക് പ്രവർത്തനം ഉടനടി കണക്കാക്കാൻ തുടങ്ങും എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നു ക്ലോക്ക് വന്നയുടനെ അല്ല ഈ ലോജിക് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് അനുവദിക്കുന്നതിനുമുമ്പ് മറ്റൊരു സമയം ടി ഹോൾഡിനായി കാത്തിരിക്കാം കാരണം ഔട്ട്പുട് സ്ഥിരത കൈവരിക്കുന്നതിന് ആ സമയം ടി ഹോൾഡ്ആവശ്യമാണ് അതിനാൽ എപ്പോൾ വേണമെങ്കിലും ക്ലോക്ക് ടി ഹോൾഡ് ആവശ്യമുള്ള സമയമാണ് അപ്പോൾ ഈ ടി ലോജിക് മാത്രമേ വരൂ ഇത് ടി ലോജിക്കാലതാമസമാണ് തുടർന്ന് നിങ്ങൾ ഈ ശൂന്യതയെയും കുഴപ്പത്തെയും പരിപാലിക്കും അതിനാൽ ടി ലോജിക്കും ടി ഹോൾഡും മൊത്തം സമയമാണ് ടി ലോജിക് ഈ ലോജിക്കിന്റെ കാലതാമസമാണ് കണക്കുകൂട്ടൽ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കാത്തിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമയമാണ് ടി ഹോൾഡ് ഇവ രണ്ടും ഒരുമിച്ച് എടുത്തത് ഈ സമയത്തേക്കാൾ വലുതായിരിക്കണം ഇത് ഉറപ്പാക്കിയില്ലെങ്കിൽ ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനം പരാജയപ്പെടാം ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതെന്തും സ്കൂസ് ഉം ജിറ്റർ ഉം ചില അളവിലുള്ള കാഴ്ചപ്പാടുകൾ നോക്കാം തൃപ്തിപ്പെടേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട് നമുക്ക് ഓരോന്നായി നോക്കാം വീണ്ടും ഞങ്ങൾ സമാന സാഹചര്യങ്ങൾ പരിഗണിക്കുന്നു രണ്ട് രജിസ്റ്റർ ഘട്ടങ്ങളുണ്ട് അതിനിടയിൽ ഒരു ലോജിക് സർക്യൂട്ട് ഉണ്ട് ഇത് യുക്തിയാണ് ഇത് ഒരു സംഭരണ ഘടകമാണ് R1 ഇത് മറ്റൊരു സംഭരണ ഘടകമാണ് R2 അതിനാൽ അവ ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഘടികാരങ്ങൾ ഈ ഘടികാരങ്ങൾ ഒരേ ഘടികാരമാണ് എന്നാൽ ഞാൻ അവ പ്രത്യേകമായി കാണിക്കുന്നു കാരണം അവയ്ക്കിടയിൽ ചില ശൂന്യതകളും അസ്വസ്ഥതകളും ഉണ്ടാകാം അതിനാൽ ക്ലോക്ക് ഒന്നിനും ക്ലോക്ക് രണ്ടിനും ഇടയിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാകാം അതിനാൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു രംഗമുണ്ട് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ സ്ക്യൂ ജിറ്റർ സെറ്റപ്പ് ആൻഡ് ഹോൾഡ് ടൈംസ് skew jitter setup and hold timesഎന്നിവ നോക്കുന്നു സർക്യൂട്ടിന്റെ ശരിയായ പ്രവർത്തനത്തിന് തൃപ്തിപ്പെടേണ്ട കുറച്ച് നിയന്ത്രണങ്ങളുണ്ട് പരിമിതികൾ ഒരിക്കൽ കൂടി സംഗ്രഹിക്കാം അതിനാൽ ആദ്യത്തെ പരിമിതി ഇതുപോലെയാണ് ഇത് പറയുന്ന പരമാവധി കാലതാമസം ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു മൊത്തം ലോജിക് സർക്യൂട്ട് കാലതാമസം സജ്ജീകരണ സമയ കാലതാമസം അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന ഘടികാരത്തിന്റെ ഈ വക്രതയും ജിറ്റർ ഉം ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ സമയ കാലയളവ് തുല്യമായതിനേക്കാൾ കൂടുതലായിരിക്കണം ഇതിന് ഇപ്പോൾ യുക്തിയും സജ്ജീകരണവും ഒരുമിച്ച് ചേർത്താൽ ഒരു ടി ലോജിക് പ്ലസ് സെറ്റപ്പ് സ്ക്യൂ ജിറ്റർഎന്നിവയെ ഒന്നിച്ചുചേർത്താൽ സ്ക്യൂ പ്ലസ് ജിറ്റർ എന്ന് വിളിക്കാം അവ ടിക്ക് തുല്യമായി കുറവായിരിക്കണം ഇത് ഒരു പരിമിതിയാണ് സജ്ജീകരണ സമയം എന്താണ് നിങ്ങൾ എത്ര സമയം കാത്തിരിക്കണമെന്ന് ഞാൻ വീണ്ടും ക്ലോക്കിന് മുമ്പായി ആവർത്തിക്കുന്നു നിങ്ങൾ ഡാറ്റ ഫീഡ് നൽകുകയും സ്ഥിരത നിലനിർത്തുകയും വേണം അത്രയും സമയം അതിനാൽ ഇവിടെ നിങ്ങൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ലോജിക് സർക്യൂട്ട്അടുത്ത ഘട്ടത്തിലേക്ക് ഡാറ്റ നൽകുന്നു അതിനാൽ സജ്ജീകരണ സമയംഇപ്പോൾ R2 ന് ബാധകമാകും ഡാറ്റ ഇവിടെ വരുമ്പോൾ ഇവിടെ ക്ലോക്ക് വരുന്നതിനുമുമ്പ് ടി സെറ്റപ്പിനായികുറഞ്ഞ സമയത്തേക്ക് ഡാറ്റ സ്ഥിരത നിലനിർത്തണം അതുപോലെ R1 ന് മുമ്പുള്ള ഈ ഘട്ടം ഡാറ്റ വരുമ്പോഴെല്ലാം ഇവിടെ ഘടക ടി സെറ്റപ്പ്ഉണ്ടാകും അതിനാൽ യുക്തിയും ടി സജ്ജീകരണവും ആ ആഘാതവും ആ സമയ പരിധിക്കുള്ളിൽ ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യവും വക്രീകരിക്കുക ഇതാണ് ആദ്യത്തെ തടസ്സം അതിനാൽ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് സ്കൂ ജിറ്റർ എന്നിവയ്ക്കൊപ്പം പരമാവധി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി1 ആയിരിക്കുമെന്ന് പറയാൻ കഴിയും ഇത് ഏറ്റവും കുറഞ്ഞ കാലതാമസമായിരിക്കും അതിനാൽ നിങ്ങൾ ഈ 1 ന്റെ പരസ്പരവിരുദ്ധത എടുക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ടിന് പ്രവർത്തിക്കാൻ കഴിയുന്ന പരമാവധി ആവൃത്തിയായിരിക്കും ഇത് സൈദ്ധാന്തികമായി ഈ സ്കീയും ജിറ്റർ ഉം നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ പരമാവധി ആവൃത്തി ടി ലോജിക് സജ്ജീകരണ സമയംഅനുസരിച്ച് ഈ 1 ന്റെ യുക്തിയും സജ്ജീകരണ സമയവും മാത്രമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ആവൃത്തിനഷ്ടപ്പെടുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസൈൻ വീക്ഷണകോണിൽ നിന്ന് നോക്കുന്നു ഒരു ഡിസൈനർ എന്ന നിലയിൽ ഞാൻ ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാണുക എന്റെ സർക്യൂട്ട് കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എന്റെ സർക്യൂട്ടിന്റെ വേഗത പരമാവധി ക്ലോക്ക് ആവൃത്തി ഞാൻ എങ്ങനെ അളക്കും അതിനാൽ സൈദ്ധാന്തികമായി തുടക്കത്തിൽ ഞാൻ സ്കൂ ജിറ്റർ എന്നിവയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അതിനാൽ ക്ലോക്ക് വരുന്നുണ്ടെന്നും വളരെ നല്ല രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നുവെന്നും കരുതുക എന്റെ പരമാവധി ആവൃത്തി എവിടെയായിരിക്കണമെന്ന് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് പക്ഷേ എന്റെ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്തതിനുശേഷം വക്രതയും ഞെട്ടലും കാരണം എനിക്ക് ആ പരമാവധി ആവൃത്തിയിലേക്ക് പോകാൻ കഴിയില്ലെന്ന് ഞാൻ കണ്ടെത്തി അതിനാൽ ഞാൻ ക്ലോക്ക് കുറച്ചുകൂടി വൈകിപ്പിക്കണം അതിനാൽ യഥാർത്ഥ ആവൃത്തി അല്പം കുറയ്ക്കേണ്ടതുണ്ട് അതാണ് ഞാൻ നൽകുന്ന വില അതിനാൽ ഇവിടെ വക്രതയുടെയും തമാശയുടെയും അഭാവത്തിൽ എനിക്ക് ഇത് ഉണ്ട് നിങ്ങൾക്ക് ഒരു ആവൃത്തി ചെലവ്എന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ആവൃത്തി ചെലവ് എന്താണ് ഇത് ആവൃത്തിയിലെ വ്യത്യാസമാണ് ശൂന്യവും ചങ്കൂറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവരിക്കാവുന്ന പരമാവധി ആവൃത്തിയാണ് ശൂന്യതയുടെയും ചഞ്ചലത്തിന്റെയും സ്ഥാനത്ത് യഥാർത്ഥ ആവൃത്തി മൈനസ് എഫ് മാക്സ്കൊണ്ട് ഹരിച്ചാൽ അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ലളിതമായ ഒരു ഗണിതശാസ്ത്രം ചെയ്യുകയാണെങ്കിൽ ഈ പ്രയോഗം ടി സ്ക്യൂ ജിറ്റർ ടി ലോജിക് സെറ്റപ്പ് ടി സ്ക്യൂ ജിറ്റർt skew jitter plus t logic setup plus t skew jitter എന്നിവയിലേക്ക് വരും നിങ്ങൾക്ക് കഴിയുന്നത്ര സ്ക്യൂ ജിറ്റർ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഈ ആവൃത്തി ചെലവും അതനുസരിച്ച് കുറയും ഡിസൈനറുടെ പ്രധാന വെല്ലുവിളി ഇതാണ് ക്ലോക്ക് സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം ക്ലോക്ക് നെറ്റ്വർക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അങ്ങനെയാണ് നിങ്ങളുടെ സ്ക്യൂവും ജിറ്ററും ചെറുതാക്കുന്നത് കാരണം എനിക്ക് ഒരു ചിപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെ എന്ന് എനിക്കറിയില്ല കാരണം ഇത് എങ്ങനെ എന്റെ നിയന്ത്രണത്തിലാകും എന്ന് നിങ്ങൾക്ക് നന്നായി പറയാൻ കഴിയും വളരെയധികം കാലതാമസം എടുക്കും പക്ഷേ കുറഞ്ഞത് നിങ്ങൾക്ക് ശ്രമിക്കാം എല്ലാ ക്ലോക്ക് വയറിന്റെയും നീളം ഏകദേശം തുല്യമാണെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാം അങ്ങനെ കണക്കാക്കിയ കാലതാമസം ഒന്നുതന്നെയായിരിക്കണം അതിനാൽ കാലതാമസ വ്യതിയാനം മിനിമം ആയിരിക്കണം ഈ ചരിവ് കുറവായിരിക്കണം ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിനാൽ ഇതാണ് ഞാൻ കാണിക്കുന്ന ഒരു സാമ്പിൾ ഡാറ്റ മാത്രം അതിനാൽ പരമാവധി 1 ജിഗ ഹെർട്സ്ആവൃത്തിക്കായി ഞാൻ കാണിക്കുന്ന ഒരു സാമ്പിൾ പ്ലോട്ടാണ് ഇത് ഈ സ്കെയൂ ജിറ്റർ 0 ൽ നിന്ന് വർദ്ധിക്കുമ്പോൾ ഈ സംഖ്യകൾ 240 പികോസെക്കൻഡുകൾ240 picosecondsവരെ 1 ജിഗാഹെർട്സ് മുതൽ 800 മെഗാഹെർട്സ് വരെ ഫ്രീക്വൻസി ഡ്രോപ്പുകൾഫ്രക്ൻസി dropsനിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ സ്ക്യൂ jitter കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പരമാവധി ആവൃത്തിയും കുറയുന്നു ഞങ്ങളുടെ തുടർന്നുള്ള ക്ലാസുകളിൽ ഞങ്ങളുടെ ക്ലോക്ക് ഡിസൈനിൽ ക്ലോക്ക് ട്രീ രൂപകൽപ്പനയിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിൽ ചർച്ചചെയ്യുന്ന ഒരു കാര്യം അവിടെ കാണാം നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ ക്ലോക്ക് സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ കഴിയും അങ്ങനെ ഈ സ്കയുവിനേയും ജിറ്റെറിനെയും കുറയ്ക്കാൻ കഴിയും കഴിയുന്നത്ര കാരണം ആവൃത്തി ചെലവ് കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള പ്രധാന ഘടകം അതാണ് അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ ഇന്ന് സംസാരിച്ചതെന്തും ആവൃത്തി ചെലവ്എന്ന ആശയം അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു എത്ര ആവൃത്തി ത്യജിക്കണം അതായത് സ്ക്യൂ ജിറ്റർ എന്നിവയുടെ സമ്മാനങ്ങളിലെ പ്രവർത്തനങ്ങളുടെ പരമാവധി വേഗത ഞങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒന്നാണ് മറ്റ് പാരാമീറ്ററുകൾ ഉദാഹരണത്തിന് സമയവും സജ്ജീകരണ സമയവും നിലനിർത്തുക ഇവ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സവിശേഷതയാണ് സംഭരണ ഘടകങ്ങൾ ഞങ്ങൾ നൽകേണ്ട സമയം അവ നിർബന്ധിത കാലതാമസം ആവശ്യകതകളാണ് എന്നാൽ ചരിഞ്ഞതും നടുക്കുന്നതും നിങ്ങൾക്ക് കളിക്കാൻ കഴിയുന്ന ഒന്നാണ് അതിനാൽ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിലെ കൂടുതൽ ഉദാഹരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നതിലൂടെ മറ്റ് പാരാമീറ്ററുകളിലെകാലതാമസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ ഒരുതരം വ്യാപാരം നടത്താമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മികച്ച അനുഭവം ലഭിക്കും അതുവഴി നിങ്ങൾക്ക് കുറച്ച് സമയ ലംഘനങ്ങൾ ഒഴിവാക്കാനാകും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ സർക്യൂട്ട് ഉയർന്ന വേഗതയിലും മറ്റും പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇതോടെ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലെത്തുന്നു